ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ II പാർട്ട് 10 പ്രൊഡക്ഷൻ ഓഫ് പ്ലെയിൻ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ പ്ലെയിനുകളുടെയും ലൈനുകളുടെയും പ്രൊജക്ഷൻ ആണ് ഇവിടെ പഠിക്കുന്നത് ഇത് പ്രഭാഷണ നമ്പർ 40 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലെയിനുകളുടെ പ്രൊജക്ഷനുകളെ പറ്റി ആണ് കണ്ടത് കൂടാതെ ഒരു ഉദാഹരണത്തിലൂടെ ഓക്സിലറി പ്ലെയിനുകളെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കി ഉദാഹരണത്തിന് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ 30 മില്ലീമീറ്റർ വശങ്ങളുള്ളതും 45 ഡിഗ്രി XY അക്ഷത്തിലേക്ക് ചെരിഞ്ഞിരിക്കുന്നതുമായ ഒരു പെന്റഗൺ എടുത്തിട്ടുണ്ട് XY യിലേക്ക് 45 ഡിഗ്രി ചെരിഞ്ഞ ഒരു രേഖയാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ ഇതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസിലാക്കാൻ നമ്മൾ ശ്രമിച്ചു ഈ പ്രശ്നത്തിനായി നമ്മൾ എന്താണ് ചെയ്തത് ആദ്യം ഒരു പെന്റഗൺ വരച്ചു ഒരു വശം ഈ XY അക്ഷത്തിലേക്ക് 30 ഡിഗ്രി ആംഗിൾ നിർമ്മിക്കുന്നു അതിനുശേഷം ഈ പോയിന്റുകൾ aedcb എന്നിവ ഫ്രണ്ട് വ്യൂവിലേക്കു പ്രൊജക്റ്റ് ചെയ്തു സൈഡുകളിൽ ഒന്ന് ഈ XY അക്ഷത്തിലേക്ക് 45 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നതു കാരണം ഫ്രണ്ട് വ്യൂ 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു അതിനുശേഷം ഈ വ്യൂവിൽ നിന്ന് നമുക്ക് യഥാർത്ഥ രൂപം വരക്കാം കാരണം ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും അറിയാമെങ്കിൽ ഓക്സിലറി പ്ലെയിൻ രീതി ഉപയോഗപ്രദമാണ് എന്നാൽ ഈ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും യഥാർത്ഥ ദൈർഘ്യ വിവരങ്ങൾ ആയിരിക്കില്ല തരുന്നത് അത് ഉപയോഗിച്ച് നമ്മൾ വരച്ചതെന്താണ് ഈ പോയിന്റുകൾ a b ec d പ്രൊജക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഓക്സിലറി പ്ലെയിൻ X1Y1 ഉപയോഗിച്ചു ഈ XY തലം തമ്മിലുള്ള ദൂരം a1 b1 c1 d1 e1 എന്നിവയായി പ്രതിനിധീകരിക്കുന്നു ഇവ യോജിപ്പിന്നതിലൂടെ നമുക്ക് യഥാർത്ഥ രൂപം ലഭിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഓക്സിലറി പ്ലെയിൻസ് തിരശ്ചീന തലത്തിൽ ആണോ അതോ ലംബ തലത്തിൽ ആണോ അല്ലെങ്കിൽ രണ്ടിലും നിർമ്മിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ വിശദമായി പഠിക്കും നമുക്ക് നമ്മുടെ സെഷൻ ആരംഭിക്കാം ഓക്സിലറി പ്ലൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത പ്രൊജക്ഷൻ കാഴ്ചകൾക്ക് പ്രത്യേകിച്ച് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾക്ക് യഥാർത്ഥ ദൈർഘ്യം കാണിക്കാൻ കഴിയാത്തപ്പോൾ നമുക്ക് ഈ രീതി ഉപയോഗിക്കാം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ റൈറ്റ് വ്യൂ അല്ലെങ്കിൽ ലെഫ്റ്റ് വ്യൂ എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാന പ്രൊജക്ഷനുകൾ ഒഴികെയുള്ള പ്രൊജക്ഷന്റെ മറ്റു പ്ലെയിനുകളെ ഓക്സിലറി പ്ലെയിൻസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു പ്ലെയിൻ എടുക്കുമ്പോൾ ഒരു ലംബ തലം തിരശ്ചീന തലം അല്ലെങ്കിൽ പ്രൊഫൈൽ തലം എന്നിവയല്ല മറിച്ച് തിരശ്ചീന തലത്തിലേക്കു അല്ലെങ്കിൽ ലംബ തലത്തിലേക്കു അല്ലെങ്കിൽ രണ്ടു തലത്തിലേക്കും ചരിഞ്ഞ ഒരു പ്ലെയിൻ ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ ആ ഒബ്ജെക്ടിനെ ആ പ്ലെയിനിലേക്കു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ രൂപം ലഭിച്ചേക്കാം സാധാരണയായി ഇവ യഥാർത്ഥ ദൈർഘ്യം കാണിച്ചിരിക്കുന്ന എഡ്ജിനു സമാന്തരമായി നിർമ്മിച്ചവയാണ് ഇത് മൂന്ന് പ്രിൻസിപ്പൽ പ്രോജെക്ഷൻ പ്ലെയിൻസിനു ഏതിനോടെങ്കിലും ലംബം ആയിരിക്കും നമ്മുടെ പ്രധാന പ്രൊജക്ഷൻ പ്ലെയിനുകൾ എല്ലായ്പ്പോഴും ലംബ തലം തിരശ്ചീന തലം അല്ലെങ്കിൽ പ്രൊഫൈൽ തലം എന്നിവയാണ് ഈ ഓക്സിലറി പ്ലെയിനുകൾ അവയുമായി ഒരു ഇൻക്ലിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്നു നമ്മുടെ ആവശ്യം ഇതിന്റെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ യഥാർത്ഥ ദൈർഘ്യം കണ്ടെത്തുക എന്നതാണ് അതിനാൽ യഥാർത്ഥ ദൈർഘ്യം വിന്യസിച്ചിരിക്കുന്ന അതെ ദിശയിൽ ആയിരിക്കണം നമ്മൾ ഓക്സിലറി പ്ലെയിൻ തിരഞ്ഞെടുക്കേണ്ടത് കാരണം ഈ പ്ലെയിൻ മറ്റു പ്ലെയിനുകളുമായി ഓർത്തോഗണൽ അല്ലെങ്കിൽ 90 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ടാക്കാം ഇവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്ലെയിനുകൾ ഉണ്ട് ഓക്സിലറി വെർട്ടിക്കൽ തലം ഓക്സിലറി ഇൻക്ലൈൻഡ് തലം നമുക്ക് ആദ്യത്തേത് നോക്കാം നമ്മുടെ ഓക്സിലറി പ്ലെയിൻ തിരശ്ചീന തലത്തിനു ലംബമായും അതെ സമയം ലംബ തലത്തിനു ഇൻക്ലൈൻഡും ആയിരുന്നാൽ എന്ത് സംഭവിക്കും നമുക്ക് ഒരു ചിത്രം വരയ്ക്കാം ഇത് ലംബ തലത്തിലും ഇത് തിരശ്ചീന തലത്തിലും ആണെന്നിരിക്കട്ടെ തിരശ്ചീന തലത്തിനു ലംബമായും അതെ സമയം ലംബ തലത്തിനു ഇൻക്ലൈൻഡും ആയിരിക്കണമെങ്കിൽ ഈ പ്ലെയിനിന്റെ ദിശ ഇതായിരിക്കണം അത് അത്തരത്തിലുള്ള തലം ആകാം അല്ലെങ്കിൽ അത് ഒരു ലംബ തലത്തിന് ചെരിഞ്ഞതായിരിക്കാം അതിനാൽ പൊതുവായ ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഈ ഓക്സിലറി പ്ലെയിൻ വരയ്ക്കാൻ പോകുകയാണെങ്കിൽ അത് ചരിഞ്ഞ ഒന്ന് ആണെങ്കിലും ഇപ്പോഴും ലംബമായി ഇരിക്കുന്നു അതിനാൽ ഈ തലത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതൊരു ലംബ തലമാണ് ഇത് തിരശ്ചീന തലമാണ് പിന്നെ തിരശ്ചീന തലവുമായി 90 ഡിഗ്രിയും ലംബ തലവുമായി ഒരു ഇൻക്ലിനേഷൻ ആംഗിളും നിർമ്മിക്കുന്ന ഒരു ഓക്സിലറി പ്ലെയിൻ എന്നിവയുണ്ട് ഇവ തമ്മിൽ കണക്റ്റു ചെയ്യുകയാണെങ്കിൽ ഈ പ്ലെയിൻ ഇവിടെ ഇന്റർസെക്റ്റു ചെയ്യുകയും ഒരു ആംഗിൾ ഉണ്ടാക്കുകയും ചെയുന്നു ഓക്സിലറി പ്ലെയിനിലേക്കു പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വസ്തുവിന്റെ വ്യൂസിനെ ഓക്സിലറി ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കുന്നു ഈ കേസിൽ ഓക്സിലറി പ്ലെയിൻ ഈ ദിശയിലാണ് ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്ക്വയർ ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ആ പ്ലെയിനിലേക്കു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ലംബ തലത്തിൽ ഉള്ള ആ വസ്തുവിന്റെ യഥാർഥ ഉയരമാണ് ഈ യഥാർത്ഥ ഉയരം എന്തുതന്നെയായാലും ഈ ഓക്സിലറി വെർട്ടിക്കൽ തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ ആ ഓക്സിലറി ഫ്രണ്ട് വ്യൂവിനേയും ഓക്സിലറി പ്ലെയിനേയും ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിളിക്കുകയും AVP എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ലംബ തലവുമായി ഇൻക്ലിനേഷൻ ആംഗിൾ നിർമ്മിക്കുന്ന ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്കു നമുക്കു ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാം ഓക്സിലറി പ്ലെയിൻ ലംബ തലത്തിനു ലംബമായും തിരശ്ചീന തലത്തിലേക്കു ചെരിഞ്ഞു ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതാണ് ലംബ തലം ഇതാണ് തിരശ്ചീന തലം ഇപ്പോൾ ഇത് ലംബ തലത്തിനു ലംബം ആണ് പക്ഷേ തിരശ്ചീന തലത്തിലേക്കു ചെരിഞ്ഞു ഇരിക്കുകയും ചെയ്യുന്നു ഞാൻ ആ രീതിയിൽ ഒരു പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ മറ്റൊരു നിറം ഉപയോഗിക്കുന്നു ഈ പ്ലെയിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് നീട്ടുകയാണെങ്കിൽ തിരശ്ചീന തലമായി ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത് കാണാം അതിനാൽ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിനെ AIP ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വിളിക്കാം നമ്മൾ ഇത് അളക്കുമ്പോൾ ഇത് എല്ലായ്പ്പോഴും ലംബ തലത്തിനു 90 ഡിഗ്രിയാണ് ഈ തരത്തിലുള്ള പ്ലെയിനിനു ഓക്സിലറി ടോപ് വ്യൂ എന്നും വിളിക്കുന്നു അത് ഓക്സിലറി ടോപ് വ്യൂ ആയിത്തീരുകയും ആ പ്ലെയിനിനെ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ നേടാൻ പോകുന്ന പ്രൊജക്ഷനുകളെ ഓക്സിലറി ഫ്രണ്ട് വ്യൂ എന്നും വിളിക്കുന്നു ഒരു ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിന് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രൊജക്ഷനുകൾ ഓക്സിലറി ടോപ്പ് വ്യൂ ആണ് അതിനാൽ ഈ മുഴുവൻ പ്ലെയിനിന്റെയും ആശയം നമ്മൾ സാമാന്യവൽക്കരിക്കുകയാണെങ്കിൽ പ്രധാനമായും നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിനുകൾ ഉണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയ തിരശ്ചീന തലം ലംബ തലം പരസ്പരം ഓർത്തോഗോണൽ ആയിരിക്കും അധികമായത് പ്രൊഫൈൽ തലം ആണ് ഇത് സാധാരണയായി രണ്ട് പ്ലെയിനുകൾക്കും ഓർത്തോഗണൽ ആയി കണക്കാക്കുന്നു മറ്റ് വിഭാഗങ്ങളെ ഓക്സിലറി വെർട്ടിക്കൽ തലം എന്ന് വിളിക്കുന്നു ഇത് തിരശ്ചീന തലവുമായി 90 ഡിഗ്രിയും ലംബ തലവുമായി ഒരു ആംഗിളും ഉണ്ടാക്കുന്നു നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളും തിരശ്ചീന തലം ലംബ തലം ഓക്സിലറി വെർട്ടിക്കൽ തലം എന്നിവയ്ക്കിടയിലായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്ഷനുകൾ എടുക്കാൻ കഴിയൂ ഈ പ്രൊജക്ഷനുകൾ എടുത്തുകഴിഞ്ഞാൽ ഈ ഇൻക്ലിനേഷൻ ആംഗിളിനു അനുസൃതമായി നമ്മൾ ഈ ഓക്സിലറി വെർട്ടിക്കൽ തലത്തെ ഫ്ലിപ്പുചെയ്യുന്നു അതിനാൽ എന്തെങ്കിലും ഫ്ലിപ്പ് റൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങിനെ പ്രൊജക്റ്റ് ചെയ്ത വ്യൂ എടുക്കാൻ സാധിക്കും അതുപോലെ ഇത് ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിനും ഓക്സിലറി ടോപ് വ്യൂസും ആണെങ്കിൽ ഈ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ തിരശ്ചീന തലവുമായി ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു ഇത് എല്ലായ്പ്പോഴും ലംബ തലത്തിനു ലംബം ആണ് അതിനാൽ ലംബ തലം തിരശ്ചീന തലം ഓക്സിലറി പ്ലെയിൻ എന്നിവയ്ക്കിടയിലുള്ള ഏതൊരു വസ്തുവിന്റേയും പ്രൊജക്ഷനുകൾ ഈ ഇൻക്ലൈൻഡ് പ്ലൈനിൽ ആയിരിക്കും എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പെന്റഗൺ കണ്ടു ആ പെന്റഗൺ ഓക്സിലറി പ്ലെയിനിൽ ഒരു പ്രത്യേക ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചത് അതിനാൽ അടുത്ത രണ്ട് ക്ലാസുകളിൽ ലൈനുകൾ പ്ലെയിനുകൾ സോളിഡുകൾ എന്നിവയ്ക്കായി ഈ ഓക്സിലറി പ്ലെയിൻസിനെ കുറിച്ച് നമ്മൾ കൂടുതലറിയും ആദ്യമായി ഓക്സിലറി വെർട്ടിക്കൽ തലത്തിലേക്കു ഒരു പ്രൊജക്ഷൻ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് പഠിക്കാം നമുക്ക് ഒരു പോയിന്റ് P ഉപയോഗിച്ച് ആരംഭിക്കാം ഇവിടെ ഇതാണ് ലംബ തലം തിരശ്ചീന തലം ഓക്സിലറി തലം ഇത് ഒരു ഓക്സിലറി വെർട്ടിക്കൽ തലം ആണ് കാരണം ഇത് ഈ തിരശ്ചീന തലവുമായി 90 ഡിഗ്രിയും ലംബ തലവുമായി ഒരു ആംഗിളും ഉണ്ടാക്കുന്നു ലംബ തലം ഏതു തന്നെ ആയാലും അതിനോട് അനുബന്ധിച്ചു ഒരു ആംഗിൾ ഉണ്ടാകും അതിനാലാണ് ഈ പ്ലെയിനിനെ വെർട്ടിക്കൽ പ്ലെയിൻ ഓക്സിലറി വെർട്ടിക്കൽ തലം എന്നിങ്ങിനെ ഒക്കെ വിളിക്കുന്നത് ഒരു പോയിന്റ് P ഉണ്ട് ഈ P പോയിന്റിലേക്കുള്ള കോർഡിനേറ്റുകളെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലംബ തലം തിരശ്ചീന തലം എന്നിവയിലേക്കുള്ള കോർഡിനേറ്റുകൾ ഇതായിരിക്കും ഇവിടെ P ആയിരിക്കും ഇതിനെ പ്രോജക്ട് ചെയ്താൽ ഇത് p' ആയിരിക്കും ഇപ്പോൾ ഈ VP യിലേക്ക് p പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലംബ തലത്തിൽ നമുക്ക് കിട്ടുന്നതാണ് യഥാർത്ഥ നീളം തിരശ്ചീന തലത്തിന് മുകളിലുള്ള ഉയരം ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന യഥാർത്ഥ നീളം m ആണ് ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്താലും നമുക്ക് m കാണാം ഈ P പോയിന്റ് ഓക്സിലറി വെർട്ടിക്കൽ തലത്തിലേക്ക് വീണ്ടും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഉയരം ആണ് ആദ്യത്തെ ഓക്സിലറി പ്ലെയിനിനെ p എന്ന് കാണിക്കുന്നു ഈ പോയിന്റ് P യുടെ താഴേക്ക് പ്രോജക്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്ഷനെ നമ്മൾ o1 എന്ന് വിളിക്കുന്നു അതിനാൽ ഈ P പോയിന്റിലെ കോർഡിനേറ്റുകൾ ഓക്സിലറി പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് o1 p1' ലഭിക്കുന്നു സാധാരണയായി ഈ പോയിന്റ് P ആ രീതിയിൽ സജ്ജമാക്കുമ്പോൾ ഓക്സിലറി പ്ലെയിൻ ലംബ തലവുമായി ഒരു ആംഗിൾ phi ഫൈ 𝝓 ഉണ്ടാകുന്നു p എല്ലായ്പ്പോഴും VP യിലെ പ്രൊജക്ഷനും p എന്നത് HP യിലെ പ്രൊജക്ഷനുമാണ് ഓക്സിലറി ലംബ തലത്തിലെ പ്രൊജക്ഷനാണ് p1 യഥാർത്ഥ ദൈർഘ്യം അത് എങ്ങിനെ കണ്ടെത്താം പ്രത്യേകിച്ചും അത്തരം തിരശ്ചീന തലത്തിന് മുകളിലുള്ള ഉയരങ്ങൾ VP യിൽ ഒപ്പം ഓക്സിലറി ഫ്രണ്ട് വ്യൂവിൽ അത് m ആണെന്ന് നമ്മൾ കാണും ഇതാണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ അത് ഫ്രണ്ട് വ്യൂ ആയിത്തീരുന്നു ആ ദിശയിലേക്ക് തിരിക്കുക അപ്പോൾ ഈ ഓക്സിലറി പ്ലെയിനിന്റെ ഫ്രണ്ട് വ്യൂ പോലെ കാണും കൂടാതെ ഈ അച്ചുതണ്ട് X1Y1 നെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അതിനാൽ ഈ X1 പോയിന്റ് ഉറപ്പിച്ചു റൊട്ടേറ്റ് ചെയ്യുക മറ്റൊരു മാർഗം അതിനെ ത്രിമാനമായി നോക്കുക എന്നതാണ് ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും എല്ലായ്പ്പോഴും അവിടെയുണ്ട് ഈ X1 തിരശ്ചീന തലവുമായി ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു അതിനാൽ ഇവിടെയായി നമുക്ക് ഇത്തരത്തിലുള്ള X1Y1 പ്ലെയിൻ നിർമ്മിക്കാം ഇത് തിരശ്ചീന തലവുമായി ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു അതിനാൽ ഈ ആംഗിൾ നമ്മൾ 𝝫 ആംഗിളായി കാണുന്നു നമ്മൾ ഈ ഓക്സിലറി പ്ലെയിൻ X1Y1 വരയ്ക്കുന്നു ഈ പോയിന്റിലെ വിവരങ്ങൾ ഇവിടെ നിന്ന് തന്നെ പ്രൊജക്റ്റ് ചെയ്യുക നമ്മൾ ഈ പോയിന്റ് p' പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ പ്രൊജക്റ്റു ചെയ്യുന്നു അതുപോലെ ഈ പോയിന്റ് p ആ പോയിൻറ്ലേക്ക് പോകുന്നു അതിനാൽ നമ്മൾ ഒരു പോയിന്റ് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം നമുക്ക് അത് ആ ദിശയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം അവിടെ നിന്ന് പ്രൊജക്റ്റുചെയ്ത ഈ P പോയിന്റ് ആ സ്ഥാനത്തേക്ക് വരുന്ന ഓക്സിലറി പ്ലെയിനിലേക്കും അവിടെ നിന്നും അത് ആ ലൈനിന് സമാന്തരമായും പോകുന്നു അതിനാൽ ആ രേഖക്ക് സമാന്തരമായി വ്യൂ നിർമ്മിക്കാൻ ഒരു പുതിയ സ്ഥാനം കൊണ്ടുവരും അതിനാൽ ഈ HP 90 ഡിഗ്രി തിരിക്കുന്നതിലൂടെ അത് VP യിലെ പ്ലെയിനിലേക്ക് കൊണ്ടുവരുന്നു അതിനാൽ ഈ HP 90 ഡിഗ്രി കറക്കണം അങ്ങനെ നമുക്ക് ഈ പ്ലെയിൻ ലഭിക്കും ഈ HP VP യുമായി ഒരു പ്ലെയിൻ ഷെയർ ചെയ്താൽ AVP X1Y1 ലൈനിനെ റൊട്ടേറ്റു ചെയ്യും അങ്ങനെ അത് തിരശ്ചീന തലവും ലംബ തലവും കൂടി ചേർന്ന ഒരു പ്ലെയിനിൽ സ്ഥിതിചെയ്യുന്നു അതിനാൽ ചിത്രപരമായി ഇവിടെ നമ്മൾ X1Y1 കാണിക്കുന്നു നമ്മൾ തിരിക്കുമ്പോൾ അത് ഒരു ആംഗിൾ 𝝫 ഉണ്ടാക്കുന്നു

പിന്തുടരേണ്ട ഘട്ടങ്ങൾ നോക്കാം ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അത് തിരഞ്ഞെടുക്കാം ഒരേ പോയിന്റ് p ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും ഉണ്ട് ആദ്യ ഘട്ടം XY വരയ്ക്കുക എന്നിട്ടു പോയിന്റുകൾ Pp' എന്നിവ വരയ്ക്കുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം ഓക്സിലറി ലംബ പ്ലെയിൻ VP യിലേക്ക് 𝝫 ആംഗിൾ ചെരിഞ്ഞതാണ് അതിനാൽ XY ആക്സിസ് p p' നെ മാർക്ക് ചെയ്യേണ്ടതുണ്ട് കുറച്ച് ദൂരം മാറി X1Y1 രേഖ വരയ്ക്കുക X1Y1 നമ്മുടെ ലംബ തലത്തിനുമായി ഒരു ആംഗിൾ 𝝫 നിർമ്മിക്കേണ്ടതുണ്ട് ഇവിടെക്കാണുന്ന പ്രൊജക്ഷൻ XY അവയ്ക്ക് അനുബന്ധമായും ഈ പ്ലെയിൻ ഇവിടെയോ അവിടെയോ കാണാവുന്നതാണ് അതിനാൽ ഏത് ഏകപക്ഷീയമായ അകലത്തിലും പ്ലെയിൻ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കണം പോയിന്റ് P m ഉയരത്തിലാണ് ആ ഉയരം നമുക്കു ലംബ തലത്തിൽ കാണാനാകും അല്ലെങ്കിൽ o p m ആണ് ഓക്സിലറി ഫ്രണ്ട് വ്യൂ p1 X1Y1 ലൈനിന് മുകളിലുള്ള ഉയരത്തിലും ആയിരിക്കും കാരണം P പോയിന്റിനെ നമ്മൾ ഓക്സിലറി പ്ലെയിനിലേക്കു പ്രൊജക്റ്റ് ചെയ്യുന്നു അതിനാൽ ഏകദേശം X1 ആക്സിസ് X1Y1 അക്ഷത്തിന് മറുവശത്ത് മുകളിലായിരിക്കും കാരണം ഇത് ഒരു ലംബ തലം ആണ് അതിനാൽ പ്രോജക്ഷൻ എപ്പോഴും ഒരു ഫ്രണ്ട് വ്യൂ ആയിരിക്കും അതിനാൽ ഇത് p1' ദൂരം m ആയിരിക്കും ഈ ഫ്രണ്ട് വ്യൂ ഒരു ലംബ തലത്തിന് മുകളിലായിരിക്കാം p1 എന്ന് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ o1 അളക്കുകയാണെങ്കിൽ ഇത് ഇന്റർസെക്ക്ട് ചെയ്യുന്ന പോയിന്റാണ് p1 നമ്മൾ അവിടെ ഒരു രേഖയിലൂടെ താഴേക്ക് പോകുകയാണെങ്കിൽ o1 p1 എന്നത് o p p o p' ന് തുല്യമാണ് അതാണ് നമ്മൾ അടയാളപ്പെടുത്തുന്ന രീതി